ഈ വീഡിയോ കാപ്സ്യൂളിൽ ഫോർവേഡ് കൺവെർട്ടറിന്റെ ചില നിർണായക തരംഗരൂപങ്ങൾ നമുക്ക് പരിശോധിക്കാം ഫോർവേഡ് കൺവെർട്ടറിന്റെ ഔട്ട്പുട്ട് ഭാഗം ബക്ക് കൺവെർട്ടർ പോലെയാണ് അതിനാൽ തരംഗരൂപങ്ങളുടെ ഇൻഡക്റ്റർ കറന്റ് കപ്പാസിറ്റർ കറന്റ് ഔട്ട്പുട്ട് ലോഡ് കറന്റ് എന്നി ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത ബക്ക് കൺവെർട്ടർ തരംഗരൂപങ്ങളുടേതിന് അഥവാ ബക്ക് ഇക്വിലെന്റിനു തുല്യമായിരിക്കും നമ്മൾ ഇപ്പോൾ നോക്കേണ്ടത് പ്രൈമറി സൈഡ് സ്വിച്ച് സെക്കൻഡറി സൈഡ് കറന്റ് കോർ റീസെറ്റിംഗിനുള്ള ഫ്രീ വീലിംഗ് കറന്റ് എന്നിവയുടെ തരംഗരൂപങ്ങളാണ് നമ്മൾ നോക്കുന്ന നിർണായക തരംഗരൂപങ്ങളാണിവ അത് ഉപകരണങ്ങളെ റേറ്റുചെയ്യുന്നതിനെക്കുറിച്ചും ഘടകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുമുള്ള ഒരു ആശയം നൽകും ഫോർവേഡ് കൺവെർട്ടർ ഒരു മൂലയിലേക്ക് മാറ്റിയതായി ഇവിടെ കാണാം ബക്ക് കൺവെർട്ടറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുമ്പത്തെപ്പോലെ തരംഗരൂപങ്ങൾ ഇടാൻ ഞാൻ ഇവിടെ കുറച്ച് ഇടം നൽകിയിട്ടുണ്ട് ഇവിടെ Vg എന്റെ പക്കലുണ്ട് അല്ലെങ്കിൽ Vg യഥാർത്ഥത്തിൽ ഗേറ്റ് തരംഗരൂപമാണ് നിങ്ങൾ ഇവിടെ നൽകുന്ന തരംഗരൂപമല്ല അതിനാൽ ഈ BJT അല്ലെങ്കിൽ അർദ്ധചാലക സ്വിച്ച് ഓണാകുമ്പോൾ നിങ്ങൾ ഇവിടെ നൽകുന്ന സിഗ്നൽ ഇതാണ് ഇത് സ്വിച്ച് ഓൺ പീരിയഡാണ് ഇത് സ്വിച്ച് ഓഫ് പീരിയഡാണ് ഇതാണ് dTs പിരീഡ് ഓൺ ടൈം 1 മൈനസ് dTs പീരീഡ് ഓഫ് ടൈം ആണ് ഇനി നമുക്ക് അറിയാവുന്ന ചില നിർണായക തരംഗ രൂപങ്ങൾ നോക്കാം ബക്ക് കൺവെർട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് അറിയാം തുടർന്ന് ബക്ക് കൺവെർട്ടറിനായി ചർച്ച ചെയ്തതുപോലെ പോൾ വോൾട്ടേജ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാം ഒരു വ്യത്യാസം ചിത്രത്തിൽ വരുന്ന ടേൺ റേഷ്യോ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ചെറുതായി കാണിച്ചുതരാം തുടർന്ന് നമുക്ക് മറ്റ് തരംഗരൂപങ്ങളിലേക്ക് പോകാം ഞാൻ ഇവിടെ V അല്ലെങ്കിൽ Vp സ്ഥാപിക്കുകയാണ് തരംഗരൂപം മുമ്പത്തെപ്പോലെ ഇതുപോലെ കാണപ്പെടും ഇവിടെയുള്ള മൂല്യത്തിൽ മാത്രമേ വ്യത്യാസം ഉള്ളു അത് nVin ആയിരിക്കും ആ സമയത്ത് സ്വിച്ച് ഓണാണ് ഇവിടെ നിങ്ങൾക്ക് Vin ഉണ്ട് സെക്കൻഡറിയുടെ nVin nVin എന്നിവയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ഘട്ടത്തിൽ ദൃശ്യമാകും അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്വിച്ച് ഓഫായിരിക്കുന്ന സമയത്ത് ഇൻഡക്ടർ കറന്റ് ഈ രീതിയിൽ ഫ്രീ വീലിംഗ് ആണ് Vp 0 ആണ് അതാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക അതിന്റെ ഫലമായുണ്ടാകുന്ന ശരാശരി Vo ആയിരിക്കും അതിനാൽ ഞാൻ ശരാശരിയെ സൂചിപ്പിക്കുന്ന ഒരു അളവ് ഇവിടെ എവിടെയെങ്കിലും സ്ഥാപിക്കുമെന്ന് നമുക്ക് പറയാം Vo ഇതുപോലെയാണ് അതിനാൽ ഇതാണ് Vo തരംഗരൂപം ബക്ക് കൺവെർട്ടർ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഉം സി ഉം മുമ്പത്തെപ്പോലെ തന്നെയുള്ള ബക്ക് ഭാഗമാണ് ഇൻഡക്ടർ കറന്റ് ഓപ്പറേഷനും വളരെ സാമ്യമുള്ളതാണ് അത് പിന്നീട് വീണ്ടും നോക്കും എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില പ്രധാന തരംഗരൂപങ്ങളുണ്ട് സ്വിച്ചിലൂടെ ഒഴുകുന്ന പ്രൈമറി കറന്റും ഫ്രീ വീലിംഗ് ഉള്ള കറണ്ടിന്റെ ഭാഗവും സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കോർ റീസെറ്റ് കറന്റാണ് അത് കോറിനുള്ളിൽ ഫ്ലക്സ് പുനഃസജ്ജമാക്കുകയും അടുത്ത സ്വിച്ചിംഗ് സൈക്കിളിന്റെ പ്രവർത്തനത്തിന് തയ്യാറാകുകയും ചെയ്യും ഇപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ പ്രൈമറിയിലൂടെ ഒഴുകുന്ന Im നെ കാന്തികമാക്കുന്ന ഭാഗം വരയ്ക്കാം സ്വിച്ച് ഓണായിരിക്കുമ്പോൾ പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് Vin പ്രയോഗിക്കുന്നു അത് സ്ഥിരമായ വോൾട്ടേജാണ് അതിനാൽ കാന്തിക ഭാഗം രേഖീയമായി ഉയരും കാരണം പ്രൈമറിയുടെ വോൾട്ടേജ് Lmdidt ക്കു തുല്യമാണ് അതിനാൽ വി പ്രൈമറി ഒന്നുമല്ല എന്നാൽ Vin Lm dimdt dimdt Vin Lm ഈ നിരക്ക് സ്ഥിരമാണ് അതിനാൽ കാന്തിക വൈദ്യുതധാര ഇതുപോലെ രേഖീയമായി ഉയരുന്നു അതിനാൽ അത് ഓണായിരിക്കുമ്പോഴും നിങ്ങൾ കാണുന്ന എല്ലായിടത്തും ഇത് ഇതുപോലെ പോകണം അത് പോയിക്കഴിഞ്ഞാൽ കാന്തിക വൈദ്യുതധാര അങ്ങനെ ഉയരും കൂടാതെ ഫാരഡേയ്സ് നിയമപ്രകാരം മറ്റൊരു അടിസ്ഥാന ബന്ധമുണ്ട് അത് Np dφdt ആണ് കോറിനുള്ളിലെ ഫ്ലക്സ് അത് കൂടുതൽ പ്രാഥമിക ബന്ധമാണ് കോറിനുള്ളിൽ dφdtഇതിന് സമാനമായ ഒരു രൂപമുണ്ട് അത് Lm dimdt ആണ് അതിനാൽ φ കോറിനുള്ളിൽ രേഖീയമായി വർദ്ധിക്കും ഇത് Vin Np വർദ്ധിപ്പിക്കുന്നു ഇത് Vin Lm വർദ്ധിപ്പിക്കുന്നു അതിനാൽ ചരിവ് അങ്ങനെയാണ് പരമാവധി എത്തിയ ശേഷം ഇപ്പോൾ നിങ്ങൾ ഉപകരണം സ്വിച്ച് ഓഫ് ചെയ്തു നിങ്ങൾ ഉപകരണം സ്വിച്ച് ഓഫ് ചെയ്തുകഴിഞ്ഞാൽ ട്രാൻസ്ഫോർമറിലൂടെയുള്ള കറന്റ് ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ആകുന്നതായും നിങ്ങൾ കാണുന്നു ഇത് 0 ലേക്ക് താഴുന്നു തുടർന്ന് didt ഉയർന്ന നെഗറ്റീവിലേക്കു പോകും തുടർന്ന് നിങ്ങൾ കറന്റ് വെട്ടിക്കളയുന്നു അത് didt ആണ് അതിനാൽ നെഗറ്റീവ് didt അർത്ഥമാക്കുന്നത് ഇവിടെ പ്രചോദിപ്പിക്കുന്ന വോൾട്ടേജ് ധ്രുവത മാറ്റും എന്നാണ് ഇത് പോസിറ്റീവ് ആകുകയും അത് നെഗറ്റീവ് ആകുകയും ചെയ്യും ഡോട്ട് ഇട്ട അറ്റം നെഗറ്റീവ് ആകും നോൺ ഡോട്ടഡ് പോസിറ്റീവ് ആയി മാറും ഇത് ഈ ഡയോഡ് ഓണാക്കി ഈ ക്ലോസ്ഡ് സർക്യൂട്ട് പാതയിലൂടെ കറന്റ് നയിക്കും ഇതിലൂടെ കറന്റ് ഓടിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജനറേറ്റർ പോലെ പ്രവർത്തിക്കുന്നു L R ടൈം കോൺസ്റ്റന്റ് രേഖീയമായി കുറയും അങ്ങനെ കാന്തിക വൈദ്യുതധാരയും കുറയും അതിനാൽ ഇത് R ആണെങ്കിൽ Lm ആണ് കാന്തികവൽക്കരണം എങ്കിൽ ഇതിന് ഒരു സമയ സ്ഥിരാങ്കം ഉണ്ടായിരിക്കും τ എന്നത് Lm R ന് തുല്യമാണ് ഇപ്പോൾ ഫ്ലക്സും ഫാരഡേസ് സമവാക്യം ഇത് നോക്കുന്നു തുടർന്ന് ഫ്ലക്സ് കാന്തിക പ്രവാഹത്തെയും പിന്തുടരും അതിനാൽ ഫ്ലക്സ് ആകൃതിയും നിലവിലെ രൂപത്തിന് സമാനമായിരിക്കും അതിനാൽ ഇതും ഈ രീതിയിൽ പോകും ഇതിനെ കോർ പുനഃസജ്ജമാക്കൽ എന്ന് വിളിക്കുന്നു അതിനാൽ ആ പ്രതിഭാസത്തെ 0 ലേക്ക് തിരികെ കൊണ്ടുവരുന്നത് കോർ റീസെറ്റിംഗ് എന്ന് വിളിക്കുന്നു ട്രാൻസ്ഫോർമറുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇത് വളരെ അത്യാവശ്യമാണ് ടോപ്പോളജി ഏതായാലും കോർ റീസെറ്റിംഗ് നടത്തേണ്ടതുണ്ട് ഒന്ന് ഈ ഘട്ടത്തിൽ കോർ പുനഃസജ്ജമാക്കിയിരിക്കുന്നു അതിനാൽ ഈ ഫ്രീ വീലിംഗ് സർക്യൂട്ടിലൂടെ കാന്തിക ഭാഗം ഫ്രീ വീൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് അതിനാൽ സ്വിച്ച് Iq വഴിയുള്ള കറന്റ് എന്താണ് ഇപ്പോൾ ഞാൻ അത് ഉള്ള Iq ലൂടെ കറന്റ് വരയ്ക്കട്ടെ ഞാൻ പറഞ്ഞതുപോലെ കാന്തികമാക്കുന്ന ഭാഗവും ലോഡ് പ്രതിഫലിക്കുന്ന ഭാഗവും അതിനാൽ ലോഡ് പ്രതിഫലിക്കുന്ന ഭാഗവും വരച്ച് പ്രാഥമിക സ്വിച്ച് കറന്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചുതരാം അതിനാൽ പ്രൈമറിയിലെ കാന്തിക വൈദ്യുതധാരയ്ക്ക് ഇത്തരത്തിൽ ഒരു രേഖീയ ഭാഗത്തിനു എക്സ്പോണൻഷ്യൽ ഡീകേ ഉണ്ടായിരുന്നു അതിനാൽ ഇത് കാന്തികമാക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വൈദ്യുതധാര കണ്ടു കറന്റിന്റെ ഈ ഭാഗം ഇൻഡക്ടർ കറന്റാണ് അത് ഇവിടെ ഒഴുകുന്നു ഇതിന് ഒരു തരംഗരൂപമുണ്ട് അതിനാൽ ഇത് ദ്വിതീയ വൈദ്യുതധാരയുടെ പ്രതിഫലിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ദ്വിതീയ ഇൻഡക്ടറിലെ കറന്റ് നിലവിലെ ശരാശരി Io ആണെന്നും അതിനാൽ ഈ മൂല്യം Io ആയിരിക്കുമെന്നും നിങ്ങൾ കാണുന്നു എന്നാൽ നിങ്ങൾ അതിനെ പ്രാഥമിക വശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് nIo ആയി മാറുമെന്ന് ഓർക്കുക അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഈ മൂല്യം n കൊണ്ട് സ്കെയിൽ ചെയ്യപ്പെടുന്നു ഇപ്പോൾ ലോഡ് പ്രതിഫലിക്കുന്ന ഭാഗവും ഭാഗം കാന്തികമാക്കുന്ന ഭാഗവും കൂട്ടിയാൽ കിട്ടുന്നത് സ്വിച്ചിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയാണ് അതിനാൽ കുറഞ്ഞ പ്രതിഫലിക്കുന്ന ഭാഗം ഞാൻ ഇതുപോലെ വരയ്ക്കും ഇതാണ് ലോഡ് പ്രതിഫലിച്ച ഭാഗം അതിനോട് നമുക്ക് സ്വിച്ച് ഭാഗം ചേർക്കാം അത് ഇങ്ങനെ ചേർക്കുന്നു ഇത് നിങ്ങളുടെ സ്വിച്ച് കറന്റ് ആയിരിക്കും Q എന്ന സ്വിച്ചിലൂടെ ഒഴുകുന്ന ഈ കറന്റ് Iq ആണ് അതിനാൽ ഈ ഭാഗം പച്ച നിറത്തിലുള്ള ഹാഷ് ഫ്രീ വീലിംഗ് ആണ് ഞാൻ ഇതിനെ Id എന്ന് വിളിക്കും കൂടാതെ Iq ഭാഗത്ത് യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കാന്തികമാക്കുന്ന ഭാഗം അതിനാൽ ഫോർവേഡ് കൺവെർട്ടറിന്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും നിലവിലെ തരംഗരൂപങ്ങൾ ഒഴുകുന്നത് ഇങ്ങനെയാണ് കൺവെർട്ടറിന്റെ വോൾട്ടേജ് റേറ്റിംഗുകൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാൻ നമുക്ക് വോൾട്ടേജ് തരംഗരൂപങ്ങൾ നോക്കാം സ്വിച്ച് Q പരിഗണിക്കുക ഇവിടെ സ്വിച്ചിലുടനീളം ഉള്ള Vq വോൾട്ടേജ് തരംഗരൂപം നോക്കാം

ഇപ്പോൾ Vq ഓണായിരിക്കുമ്പോൾ ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പ് മാത്രമാണ് അതിനാൽ ഇതെല്ലാം ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പ് ആയിരിക്കും സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ ഈ രീതിയിൽ ഒരു ഫ്രീ വീലിംഗ് കറന്റ് ഒഴുകുന്നത് നിങ്ങൾ കാണുന്നു ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ട് അവ തീർച്ചയായും ഡയോഡ് ഡ്രോപ്പ് ആയിരിക്കും തുടർന്ന് ഇവിടെ സർക്യൂട്ട് പൂർത്തിയാക്കുന്നതു Vin ആയിരിക്കും അതിനാൽ നിങ്ങൾ ഈ പാതയിലൂടെ കിർച്ചോഫ്സ് ലൂപ്പ്കറന്റ് നോക്കുകയാണെങ്കിൽ ഇത് ഓഫായിരിക്കുമ്പോൾ നിങ്ങൾ ഇതിലുടനീളം കാണുന്ന വോൾട്ടേജ് ഈ R ഡ്രോപ്പും ഡയോഡ് ഡ്രോപ്പും അവിടെയുള്ള Vin മൂല്യവും ആയിരിക്കും അതിനാൽ ഓഫ് സ്റ്റേറ്റിൽ യഥാർത്ഥത്തിൽ Vq ആകുന്നത് Vin IR ഡ്രോപ്പ് ആയിരിക്കും ഇവിടെ ഒഴുകുന്ന കറന്റ് ഉയർന്ന എന്തായാലും ഇത് IR Vd അല്ലെങ്കിൽ ഡയോഡ് ഓൺ സ്റ്റേറ്റ് ഡ്രോപ്പ് ആണെന്ന് പറയാം അതാണ് ഇവിടെ വരുന്നത് ഇത് ഒരു മാറുന്ന അളവാണെന്ന് നിങ്ങൾ കാണും ഇവിടെ കാന്തിക വൈദ്യുത പ്രവാഹം ക്രമാതീതമായി കുറയുന്നു അല്ലെങ്കിൽ സ്ഥിരമായ IR ഡ്രോപ്പിനും ആകൃതി ഉണ്ടായിരിക്കും ആത്യന്തികമായി അത് അത് 0 ലേക്ക് പോകുമ്പോൾ അത് Vin ലേക്ക് എത്തുകയും വേണം അതിനാൽ വോൾട്ടേജ് ഈ രീതിയിൽ നീങ്ങാൻ തുടങ്ങുമ്പോൾ Vin മൂല്യം നിങ്ങൾ കാണുമെന്ന് കരുതുന്നു ഇപ്പോൾ ഈ Q യുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ വോൾട്ടേജ് റേറ്റിംഗ് സ്റ്റാൻഡിംഗ് ശേഷിയുള്ള ഓഫ് സ്റ്റേറ്റ് വോൾട്ടേജ് ഈ അളവിനേക്കാൾ വലുതായിരിക്കണം I എന്താണ് I പൊതുവെ കാന്തിക പ്രവാഹം ആയിരിക്കണം എന്നിരുന്നാലും ഘടകങ്ങളിൽ ലീക്കേജ് കംപോണേന്റ് നിങ്ങൾ കാണും ഇവിടെ ഒരു ചോർച്ച ഉണ്ടാകും അതിനൊപ്പം ട്രാൻസ്ഫോർമർ സീരീസിലെ പ്രാഥമിക ലീക്കേജും അതിനാൽ ട്രാൻസിസ്റ്ററിന്റെ ലീക്കേജ് സമയത്ത് കാന്തികമാക്കലും ലോഡ് പ്രതിഫലിക്കുന്ന ഘടകവും വഹിക്കുന്നുണ്ട് അതിനാൽ nIo ഘടകം nIo Im എന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ആരംഭിക്കുന്ന മൂല്യമായിരിക്കും തുടർന്ന് ഒരിക്കൽ ലീക്കേജ് ഊർജ്ജം ക്ഷയിച്ചാൽ കാന്തിക ഊർജ്ജം ക്ഷയികുകയും ഈ V ആകൃതിയിൽ രൂപപ്പെടുകയും ചെയ്യും അതിനാൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനിടയിൽ ചോർച്ച മൂലമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉയർന്ന സ്പൈക്ക് നിങ്ങൾ സ്കോപ്പിൽ കണ്ടത് അപ്പോഴാണ് ലീക്കേജ് ഊർജ്ജം ആ വൈചിത്ര്യം ഉണ്ടാക്കുന്നത് അതിനാൽ I യഥാർത്ഥത്തിൽ n Io പ്ലസ് I മാഗ്നെറ്റൈസിംഗ് പീക്ക് ആയിരിക്കും അതിനാൽ ഇത് ഇന്റു R പ്ലസ് Vin Vd എന്നിവ ട്രാൻസിസ്റ്ററിന്റെയോ MOSFET ന്റെയോ Vceo റേറ്റിംഗിനെക്കാൾ കുറവായിരിക്കണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസൈൻ വഴി തിരഞ്ഞെടുത്ത ഉപകരണത്തിന്റെ മൂല്യം ഡാറ്റ ഷീറ്റ് മൂല്യം എന്നിവ നിങ്ങൾക്കറിയാം ഇത് ഒരു വ്യവസ്ഥയാണ് അങ്ങനെ തിരഞ്ഞെടുത്ത R ന്റെ മൂല്യം ഈ പരിമിതി പാലിക്കണമെന്ന് മാത്രം പറയുന്നു ഈ സ്പൈക്ക് ഒഴിവാക്കാൻ R ന്റെ മൂല്യം വളരെ കുറവായിരിക്കരുത് എന്ന മറ്റൊരു നിയന്ത്രണമുണ്ട് കാരണം അത് വളരെ കുറവായതിനാൽ ഈ ശോഷണത്തിന് ഒരു സമയ സ്ഥിരാങ്കം ഉൾപ്പെട്ടിരിക്കുന്നു കൂടാതെ സമയ സ്ഥിരതയുടെ അഞ്ച് മടങ്ങ് T ഓഫിൽ കോർ ഫ്ലക്സ് പുനഃസജ്ജമാക്കണം അതിനാൽ അഞ്ച് തവണ Lm R സമയ സ്ഥിരാങ്കം T ഓഫ് സമയത്തേക്കാൾ കുറവായിരിക്കണം അല്ലെങ്കിൽ അത് Ts തവണ ആയിരിക്കണം അതിനാൽ Lm ന്റെ മൂല്യം ട്രാൻസ്ഫോർമറിന്റെ രൂപകൽപ്പനയിൽ നിന്ന് കണക്കാക്കാം അതിനാൽ ഈ രണ്ട് അസമത്വങ്ങളിൽ നിന്നുള്ള ഈ രണ്ട് മൂല്യങ്ങളും നിങ്ങൾക്ക് ഉയർന്ന ശ്രേണിയും താഴ്ന്ന ശ്രേണിയും നൽകും ഈ രണ്ട് ഉയർന്ന ശ്രേണിയും താഴ്ന്ന ശ്രേണിയും അടിസ്ഥാനമാക്കി നിങ്ങളുടെ സർക്യൂട്ട് ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഈ ശ്രേണിയ്ക്കിടയിലുള്ള ഒരു മൂല്യം നിങ്ങൾ തിരഞ്ഞെടുക്കണം മറ്റൊരു വശം R ലെ പവർ ഡിസ്പേഷൻ കാന്തിക ഇൻഡക്ടൻസിൽ സംഭരിച്ചിരിക്കുന്ന ഊർജ്ജം 12 Lm I2max ആണ് ഇപ്പോൾ ഈ ഊർജ്ജം ഓരോ ചക്രത്തിലും R ൽ വിനിയോഗിക്കേണ്ടതുണ്ട് അതിനാൽ Ts ഊർജ്ജമാണ് ഈ ഊർജ്ജം വിനിയോഗിക്കേണ്ട ഓരോ ചക്രവും നിങ്ങൾക്ക് പവർ ഡിസിപ്പേഷൻ R നൽകും ഇത് പകുതി Lm Imax2 fs ആയി മാറുന്നു R ലെ പവർ ഡിസ്പേഷൻ R ന്റെ മൂല്യത്തിൽ നിന്ന് സ്വതന്ത്രമാണ് എന്നത് ശ്രദ്ധിക്കുക അതിനാൽ R ന്റെ മൂല്യം എന്ത് തന്നെയായാലും പവർ ഡിസിപ്പേഷൻ നിശ്ചിതമാണ് R ന്റെ മൂല്യം രണ്ട് ഘടകങ്ങൾ തരുന്നു ഒന്ന് ഇവിടെ Vq സ്പൈക്ക് വോൾട്ടേജിൽ ഈ സ്പൈക്ക് വോൾട്ടേജിന്റെ മൂല്യം സ്വിച്ച് ഓഫ് സമയത്ത് പരിമിതപ്പെടുത്തുന്നു ഫ്ളക്സിന്റെ ശോഷണത്തിന്റെ സമയ സ്ഥിരാങ്കമായ tau യും നിർണ്ണയിക്കുന്നു ഇവ രണ്ടും R ന്റെ മൂല്യം തീരുമാനിക്കാൻ പോകുന്നു കൂടാതെ പവർ ഡിസിപ്പേഷൻ നിർണ്ണയിക്കുന്നത് ആവൃത്തിയും കാന്തിക വൈദ്യുതി ഘടകങ്ങളിലെ ഇൻഡക്ടൻസും മാത്രമാണ് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രതിരോധ മൂല്യം R റേറ്റുചെയ്യാനാകും Q സ്വിച്ച് ആണ് കറന്റും വോൾട്ടേജ് റേറ്റിംഗുകളും അറിയാം വോൾട്ടേജ് റേറ്റിംഗ് അടിസ്ഥാനപരമായി Vin പ്ലസ് IR ഡ്രോപ്പ് ആണ് കറന്റ് റേറ്റിംഗ് ഇവിടെ ഒഴുകുന്ന കറന്റിന്റെ ഏത് മൂല്യവും ആയിരിക്കും Io ട്രാൻസ്ഫർ ചെയ്ത പീക്ക് മൂല്യം ഇവിടെ nIo പ്ലസ് ഡെൽറ്റ IL ആണ് അതിനാൽ n തവണ Io പ്ലസ് ഡെൽറ്റ I L പ്രവാഹം ലോഡ് റിഫ്ലക്ടഡ് പ്ലസ് I മാഗ്നറ്റൈസിംഗിന് സമമായിരിക്കും പ്രവാഹത്തിൽ ഇവിടെ ഒഴുകുന്ന രണ്ട് ഘടകങ്ങൾ ഇവയാണ് ഇവിടെയുള്ള ഡയോഡ് കറന്റും ബക്ക് കൺവെർട്ടർ സർക്യൂട്ടിനായി നമ്മൾ ചർച്ച ചെയ്ത അതേ രീതിയിൽ തന്നെ റേറ്റുചെയ്യാം ബക്ക് കൺവെർട്ടർ സർക്യൂട്ടിനായി നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ L ഉം C യും ഡിസൈൻ ചെയ്യും കാരണം അതിന്റെ പുറം ഭാഗം സർക്യൂട്ട് മറ്റൊന്നുമല്ല ബക്ക് കൺവെർട്ടർ ആണ് അതിനാൽ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഡയോഡ് എന്നിവയെ റേറ്റ് ചെയ്യുന്നതിനുള്ള റെസിസ്റ്ററിനെ എങ്ങനെ റേറ്റുചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ട്രാൻസിസ്റ്റർ ഓണായിരിക്കുമ്പോൾ Vin നേരിടേണ്ട കാന്തിക വൈദുതിയുടെ ശരാശരിയുടെ റേറ്റിംഗും വോൾട്ടേജ് റേറ്റിംഗും ഉണ്ടായിരിക്കും അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് വിവിധ ഘടകങ്ങളെ റേറ്റുചെയ്യാനാകും ഈ സർക്യൂട്ട് അനുകരിക്കാനും വിവിധ പോയിന്റുകളിലെ വിവിധ തരംഗരൂപങ്ങളെക്കുറിച്ച് കൂടുതലറിയാനും ഈ സർക്യൂട്ടിലേക്ക് കൂടുതൽ ഇൻസൈഡ് നേടാനും നിങ്ങൾക്ക് ഇത് നല്ല സമയമല്ല